ഇതും അടുത്ത ട്യൂട്ടോറിയലും ഞങ്ങൾ അസൈൻമെന്റ് മൂന്ന് പരിഹരിക്കാൻ പോകുന്നു അസൈന്മെന്റിന്റെ ആദ്യ പ്രശ്നം ഇമേജ് ചാർജിലാണ് കൂടാതെ നമുക്ക് x z y z തലം ഉണ്ടെങ്കിൽ അത് ഗ്രൌണ്ട് ആണ് അതിനർത്ഥം പൊട്ടെൻഷ്യൽ പൂജ്യo ആണ് X സ്ഥാനത്ത് ചാർജ്ജ് q എന്ന സ്ഥാനത്ത് ഞങ്ങൾ ചാർജ്ജ് എടുക്കുന്നു ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഈ പ്രദേശത്തെ x y ലെ പൊട്ടെൻഷ്യൽ പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രശ്നത്തിന് ഇമേജ് ചാർജ് എന്തായിരിക്കണം അതിനാൽ അതിർത്തി വ്യവസ്ഥ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഞങ്ങൾ ഇമേജ് ചാർജ് എടുക്കുന്നത് പൊട്ടെൻഷ്യൽ പൂജ്യമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ x z തലത്തിൽ പോട്ടെൻഷ്യൽ പൂജ്യമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു z എവിടെ നിന്ന് വരുന്നു z ഇവിടെയുണ്ട് അത് പേപ്പറിൽ നിന്ന് പുറത്തുവരുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കണം അതിനാൽ ഈ x z തലം പൂജ്യമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പോൾ ഞാൻ ഒരു മൈനസ് q ചാർജ് നൽകണം അല്പം വ്യത്യസ്തമായ നിറമാക്കാം അതിനാൽ x 0 മൈനസ് y 0 എന്ന ഇരുണ്ട സ്ഥാനത്തും മൈനസ് q ചാർജ് ഉണ്ട് ഇത് ഈ തലം മുഴുവൻ കൃത്യമായ പൂജ്യമായി മാറുന്നു എന്നിരുന്നാലും ഇത് y z തലം പൂജ്യമാക്കുന്നില്ല അതാണ് ഈ തലം ആ തലത്തിൽ ഇത് പൂജ്യമാക്കുന്നതിന് ഞാൻ ഇപ്പോൾ ഒരു ചാർജ് മൈനസ് ക്യു മൈനസ് x 0 y 0 ലും ഇടും ഇതിലൂടെ പൊട്ടെൻഷ്യൽ പൂജ്യമാക്കും പക്ഷേ ഇത് പിന്നീട് xz തലത്തിൽ വീണ്ടും ഒരു പൊട്ടെൻഷ്യൽ സൃഷ്ടിക്കുന്നു കൂടാതെ അവ ഞാൻ നിർവീര്യമാക്കേണ്ടതുണ്ട് ഇത് നിർവീര്യമാക്കുന്നതിന് ഞാൻ മൂന്നാമത്തെ ഇമേജ് ചാർജ് എടുക്കുന്നു ഇത് ഈ ഘട്ടത്തിൽ പ്ലസ് q ആണ് മൈനസ് x 0 y 0 ൽ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കും പിങ്ക് നിറത്തിലുള്ള ചാർജും പച്ച നിറത്തിലുള്ള ചാർജും y z തലം പൂജ്യമാക്കുന്നു ചുവപ്പ് പച്ച നിറങ്ങളിലുള്ള യഥാർത്ഥ ചാർജ് x z തലം പൂജ്യമാക്കും പർപ്പിൾ പിങ്ക് നിറങ്ങളിൽ മൈനസ് q വീണ്ടും x z തലം പൂജ്യമാക്കുന്നു മൈനസ് q ചുവപ്പ് നിറത്തിലുള്ള q എന്നിവ യഥാർത്ഥ ചാർജ് അതിനെ y z തലം പൂജ്യമാക്കുന്നു അതിനാൽ ഈ ചാർജുകളെല്ലാം ആവശ്യമുള്ള അതിർത്തിയിൽ പൂജ്യമാക്കും അതിനാൽ ഇമേജുകളുടെ നിരക്കുകൾ മൈനസ് q മൈനസ് എക്സ് നോട്ട് വൈ നോട്ട് എനിക്ക് ഉണ്ട് ഇത് പ്ലസ് q പ്ലസ് q മൈനസ് എക്സ് നോട്ട് മൈനസ് വൈ നോട്ട് മൈനസ് q എക്സ് നോട്ട് മൈനസ് വൈ നോട്ട് മൈനസ് q മൈനസ് എക്സ് നോട്ട് വൈ നോട്ട് പ്രശ്നം നമ്പർ രണ്ട് ഒരു ഗ്രൌണ്ട് ചാലക ഗോളത്തിന്റെ മധ്യത്തിൽ നിന്ന് 7 സെന്റീമീറ്റർ അകലെയാണ് ഒരു പോയിന്റ് ചാർജ് സ്ഥിതിചെയ്യുന്നത് അതിനാൽ എനിക്ക് അടിസ്ഥാനപരമായ ഒരു ഗോളമുണ്ട് ഇതിനർത്ഥം ഇതിലെ പൊട്ടെൻഷ്യൽ പൂജ്യം ആണ് എനിക്ക് ഒരു പോയിന്റ് ചാർജ് q ഉണ്ട് അത് കേന്ദ്രത്തിൽ നിന്ന് വളരെ അകലെയാണ് ഈ ഗോളത്തിന്റെ ആരം ദൂരം R ആയിരിക്കട്ടെ ഈ ദൂരം പ്രാരംഭ ദൂരം മധ്യത്തിൽ നിന്ന് r 0 ആയിരിക്കട്ടെ അതിനാൽ ഞാൻ അത് മുകളിൽ കാണിക്കട്ടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ദൂരം r 0 ആയിരിക്കട്ടെ ഈ ഘട്ടത്തിൽ ഈ ചാർജ് q ന്റെ പൊട്ടെൻഷ്യൽ കണക്കാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ഒരു പൊട്ടെൻഷ്യൽ ഉണ്ട് ഈ q ഇവിടെ നെഗറ്റീവ് ഇമേജ് ചാർജ് q പ്രൈം നൽകുന്നു അത് ആകർഷിക്കുന്നു ഇപ്പോൾ പോട്ടെൻഷ്യൽ കണക്കാക്കാനും ചെയ്ത ജോലികൾ കണക്കാക്കാനും ചാർജ് എടുക്കുന്നതിൽ അനന്തതയ്ക്ക് തുല്യമായിരിക്കാനും ആ ജോലി ചെയ്യുന്നത് അനന്തമായ മൈനസ് പോട്ടെൻഷ്യൽ യുള്ള ഊർജ്ജത്തിന് തുല്യമായിരിക്കും വർക്ക് ഡൺ എങ്ങനെ കണക്കാക്കാം ഈ ചാർജിലെ ബലം കണക്കാക്കി ഞാൻ കണക്കാക്കും ഈ ചാർജിലെ ബലം ഉണ്ടാകുന്നത് ഇമേജ് ചാർജ് q പ്രൈമിൽ നിന്നാണ് അതിന്റെ ദൂരം r ആണെങ്കിൽ മൈനസ് q R ഓവർ r ന് തുല്യമാണ് ഞാൻ r ആയിരിക്കാനുള്ള ദൂരം എടുക്കുന്നുവെന്നത് ശ്രദ്ധിക്കുക കാരണം ഞാൻ ഇമേജ് ചാർജ് r മുതൽ അനന്തതയിലേക്ക് മാറ്റും Q പ്രൈം തുല്യമായ അകലത്തിലാണ് q പ്രൈം d അകലെയാണ് അത് r സ്ക്വാർ ഓവർ R ന് തുല്യമാണ് അതിനാൽ q നും q പ്രൈമിനും ഇടയിലുള്ള ദൂരം r മൈനസ് r സ്ക്വാർ ഓവർ R തുല്യമാണ് ഇത് r സ്ക്വാർ മൈനസ് R സ്ക്വാർ ഓവർ r ന് തുല്യമാണ് അതിനാൽ ചാർജും ഇമേജ് ചാർജും തമ്മിലുള്ള ആകർഷണ ഫോഴ്സ് F ആകർഷണ ഫോഴ്സ് എഫ് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 q പ്രൈമിന് തുല്യമായിരിക്കും ഇത് q R ഓവർ വിദൂര സ്ക്വയർ ആണ് q അത് ഒന്നുമില്ല എന്നാൽ r സ്ക്വയർ മൈനസ് R സ്ക്വയർ സ്ക്വയറും r സ്ക്വയറും മുകളിൽ പോകും അതിനാൽ ഈ ഫോഴ്സ് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 q സ്ക്വയർ R r ഓവർ r സ്ക്വയർ മൈനസ് R സ്ക്വയർ സ്ക്വയറായി മാറുന്നു അതിനാൽ നീക്കുന്നതിന് വർക്ക് ഡൺ ഇത് ആകർഷണ ഫോഴ്സ് ആണ് ഞാൻ വിപരീത ദിശയിൽ ഒരു ഫോഴ്സ് പ്രയോഗിക്കും അതിനാൽ ഈ ചാർജ് r 0 ൽ നിന്ന് അനന്തതയിലേക്ക് മാറ്റുന്നതിൽ ഞാൻ ചെയ്ത വർക്ക് ഡൺ ഇത് q ഓവർ 4 pi എപ്സിലോൺ 0 ന് തുല്യമാണ് ഈ R പോലും പുറത്തുവരുന്നു കൂടാതെ എനിക്ക് r d r ഓവർ r സ്ക്വാർ മൈനസ് R സ്ക്വാർ r 0 മുതൽ അനന്തത വരെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് നമുക്ക് r സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ z സ്ക്വയറിന് തുല്യമായി എടുക്കാം അങ്ങനെ zdz rdr ആണ് അതിനാൽ എനിക്ക് വർക്ക് ഡൺ q സ്ക്വയർ r ഓവർ 4 pi എപ്സിലോൺ 0 ഇന്റഗ്രേഷൻ r 0 തുല്യമാണ് z തുല്യമായിരിക്കും സ്ക്വാർ റൂട്ട് r 0 സ്ക്വാർ മൈനസ് R സ്ക്വാർ അനന്തത വരെ എനിക്ക് z d z ഓവർ z റൈസ് ടു 4 ഇത് എനിക്ക് z ക്യൂബ് നൽകുന്നു F14π0qR qr2r r2 R2214π0q2Rrr2 R22 0F drq2R4π0r0rdrr2 R22 Let r2 R2z2zdzrdr Wq2R4π0r02 R2zdzz4 അതിനാൽ വർക്ക് ഡൺ 1 ഓവർ 4 പൈ എപ്സിലോൺ 0 ക്യു സ്ക്വയർ ആർ ഇന്റഗ്രേഷൻ സ്ക്വയർ റൂട്ട് ആർ നോട്ട് സ്ക്വയർ മൈനസ് ആർ സ്ക്വയറിലേക്ക് അനന്തമായ dz ഓവർ z ക്യൂബിന് തുല്യമായിരിക്കും ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് q സ്ക്വയർ ആർ ഓവർ 4 pi എപ്സിലോൺ 0 1 ഓവർ 2 1 ഓവർ ആർ നോട്ട് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ നല്കുന്നു q 8 മൈക്രോ കൂളമ്പിന് തുല്യമാണെന്ന് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നു r എന്നത് 5 സെന്റീമീറ്ററിന് തുല്യമാണ് അത് ഒന്നുമല്ല എന്നാൽ 5 തവണ 10 റൈസ് ടു മൈനസ് 2 r 0 7 സെന്റിമീറ്ററിന് തുല്യമാണ് അത് 7 മടങ്ങ് 10 റൈസ് ടു മൈനസ് 2 മീറ്റർ അതിനാൽ എനിക്ക് ലഭിക്കുന്ന ഉത്തരം q സ്ക്വയറിന് തുല്യമാണ് ഇത് 64 മടങ്ങ് 10 റൈസ് ടു മൈനസ് 12 മടങ്ങ് r ആയി 5 ആണ് തവണ 10 റൈസ് ടു മൈനസ് 2 1 ഓവർ 4 പൈ എപ്സിലോൺ 0 കൊണ്ട് ഹരിക്കുന്നു ഇത് 9 തവണ 10 റൈസ് ടു 9 വിഭജിക്കുന്നു 2 തവണ ആർ സ്ക്വയർ ആർ 0 സ്ക്വയർ കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇത് 49 മൈനസ് 25 തവണ 10 റൈസ് ടു മൈനസ് 4 അതിനാൽ ഇത് 64 തവണ 5 തവണ 9 ആയി വിഭജിച്ച് 2 തവണ 24 തവണ 10 റൈസ് ടു മൈനസ് 4 നമുക്ക് നോക്കാം ഇത് 10 റൈസ് ടു മൈനസ് 4 10 റൈസ് ടു 2 10 റൈസ് ടു 11 10 റൈസ് ടു മൈനസ് 1 അതിനാൽ 3 8 3 അതിനാൽ ഇത് 6 0 ജൂളുകളായി മാറുന്നു 0 Joules അതിനാൽ ഞങ്ങൾ കാണിച്ചത് എനിക്ക് ഈ ലോഹഗോളമുണ്ടെങ്കിൽ അത് ഗ്രൌണ്ട് ആണ് കൂടാതെ 8 മൈക്രോ കൂളംബുകളുടെ ചാർജ് 7 സെന്റീമീറ്ററിൽ നിന്ന് അനന്തതയിലേക്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ അനന്തമായി v ന് തുല്യമായിരിക്കണം അനന്തമായ മൈനസ് v യിലെ ഊർജ്ജം ഈ ഘട്ടത്തിൽ r 0 6 ജൂളുകൾക്ക് തുല്യമാണ് V മൈനസ് അനന്തത മുതൽ അനന്തത വരെ എടുക്കുമ്പോൾ എനിക്ക് ഉത്തരം ലഭിക്കുന്നു v r 0 മൈനസ് 6 0 ജൂളുകൾക്ക് തുല്യമാണ് അതാണ് ഉത്തരം അടുത്ത ചോദ്യം നമ്മൾ ആരം R ന്റെ ഒരു ലോഹഗോളമെടുക്കുകയാണെങ്കിൽ അതിൽ ഇലക്ട്രോണുകൾ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഇത് ചാർജ്ജ് ചെയ്യപ്പെടും ഇലക്ട്രോൺ വരുമ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഈ ഗോളത്തിൽ വ്യാപിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഈ ചാർജ് ക്യാപിറ്റൽ R ദൂരത്തിൽ വ്യാപിച്ചതാണെന്നോ നാം എടുക്കാൻ പോകുന്നുവെന്നതാണ് മൊത്തം വർക്ക് ഡൺ അതിനാൽ എനിക്ക് n ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ചെറിയ n ഇലക്ട്രോണുകൾ അവ സൃഷ്ടിക്കാൻ പോകുന്ന പോട്ടെൻഷ്യൽ ലോഹഗോളത്തിന് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 n e ഓവർ R ആയിരിക്കും ഞാൻ ഇപ്പോൾ ഒരു അധിക ഇലക്ട്രോൺ കൊണ്ടുവരുന്നുവെങ്കിൽ ആ അധിക ഇലക്ട്രോൺ കൊണ്ടുവരുന്ന വർക്ക് ഡൺ v തവണ ഇ ആയിരിക്കും ഇത് b 1 ഓവർ 4 പൈ എപ്സിലോൺ 0 n e സ്ക്വയർ ഓവർ ആർ ഇത് n ൽ നിന്ന് ഇലക്ട്രോൺ n ന്റെ എണ്ണം n പ്ലസ് 1 ലേക്ക് പോകുന്നു e14π0ne2R അതിനാൽ നെറ്റ് വർക്ക് ഡൺ നമ്മൾ n ൽ നിന്ന് N ലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഈ വ്യക്തിഗത സൃഷ്ടികളുടെ ആകെത്തുകയാണ് 4 പൈ എപ്സിലോൺ 0 n e സ്ക്വയർ ഓവർ r n ന് 0 മുതൽ N വരെ തുല്യമാണ് ഇത് എനിക്ക് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 n n മൈനസ് 1ഓവർ 2 r നൽകുന്നു അതാണ് ഉത്തരം അതിന് നല്ലൊരു വ്യാഖ്യാനമുണ്ട് ഞാൻ ഒരു ഗോളത്തെ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ പരമ്പരാഗതമായി കാണുന്നു അത് നമ്മൾ ചെയ്യുന്നത് ചാർജ്ജ് q ആണ് ഞങ്ങൾ vdq ചെയ്യുന്നു അത് ഒന്നുമല്ല പക്ഷേ 1 ഓവർ 4 പൈ എപ്സിലോൺ 0 q ഓവർ r d q q 0 മുതൽ Q വരെ പോകുന്നു ഞങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം 1 ഓവർ 2 4 പൈ എപ്സിലോൺ 0 q സ്ക്വയർ ഓവർ 2 r ആണ് Total work donen0N 114π0ne2R14π0N2R V dq14π00QqRdq14π0Q22R അതിനാൽ എനിക്ക് ഇലക്ട്രോണുകളെ അനന്തമായ ചാർജുമായി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് ഒരു സമയം 1 ഇലക്ട്രോൺ കൊണ്ടുവരികയല്ല മറിച്ച് ആ ഇലക്ട്രോണിനെ അനന്തമായ ചാർജായി തകർക്കുന്നുവെങ്കിൽ ആകെ നെറ്റ് വർക്ക് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 n സ്ക്വയർ e സ്ക്വയർ ഓവർ 2 r എന്നിരുന്നാലും ഞങ്ങൾ ഇലക്ട്രോണുകളെ തകർക്കുന്നില്ല ഒരു സമയം ഒരു ഇലക്ട്രോൺ ഞങ്ങൾ അവയിൽ കൊണ്ടുവരുന്നു അതിനാൽ ഓരോ ഇലക്ട്രോണിനെയും n തവണ കൂട്ടിച്ചേർക്കാൻ ആവശ്യമായ ഊർജ്ജം ഇതിൽ ഞാൻ കണക്കാക്കുന്നു ഓരോ ഇലക്ട്രോൺ അസംബ്ലിക്കും 1 ഓവറിൽ 4 പൈ എപ്സിലോൺ 0 e സ്ക്വയർ ഓവർ 2 r പ്രവർത്തനം ആവശ്യമാണ് ഓരോ ഇലക്ട്രോൺ ബിറ്റും അനന്തമായ ചാർജുകളിൽ കൊണ്ടുവന്ന് n കൊണ്ടുവന്ന് അത് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ n ഇലക്ട്രോണുകൾക്ക് ഇത്രയധികം ജോലി ആവശ്യമാണ് n തവണ e സ്ക്വയർ 2 r 1 ഓവർ 4 പൈ എപ്സിലോൺ 0 ഇടതുവശത്ത് ഞാൻ കാണിക്കുന്ന ഊർജ്ജം കണക്കാക്കുന്നതിൽ ഞാൻ കണക്കാക്കുന്ന തുകയാണിത് ഞാൻ ഇത് കുറച്ചാൽ എനിക്ക് ശരിയായ ഉത്തരം ലഭിക്കണം അതാണ് എന്റെ ഉത്തരം അതാണ് നമ്മുടെ ഉത്തരത്തിന്റെ വ്യാഖ്യാനം അടുത്ത ചോദ്യo നമ്പർ നാല് ക്യാപിറ്റൽ ആരം R ന്റെ ഒരു ഗോളത്തിന് ചാർജ് ഡെൻസിറ്റി ഉണ്ടോ അത് കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് rho 0 r ന് തുല്യമാണോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഈ ചാർജ് വിതരണത്തിന്റെ ഊർജ്ജം എന്തായിരിക്കും അതിനാൽ ഈ ചാർജ് കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കും എനിക്ക് ആരം r ന്റെ ഒരു ഗോളമുണ്ടെന്നും അതിന് മുകളിൽ ഞാൻ കട്ടിയുള്ള ഒരു ഷെൽ d r കൊണ്ടുവരുന്നു ഇതിൽ ചെയ്ത പ്രവർത്തനം കണക്കാക്കുക കൂടാതെ r ചെറിയ r 0 മുതൽ R വരെ അങ്ങനെയാണ് ഞാൻ ഈ ചാർജ് വിതരണത്തിന്റെ ഊർജ്ജം കണക്കാക്കുന്നത് അതിനാൽ ആരം r ന്റെ ഒരു ഗോളത്തിൽ ഞാൻ ചാർജ് കണക്കാക്കിയാൽ ഇത് q ആയിരിക്കും നമുക്ക് ഇതിനെ വിളിക്കാം q r ഇന്റഗ്രൽ ന് തുല്യമായിരിക്കും ഇത് ഗോളീയമായി സമമിതി ആയതിനാൽ എനിക്ക് വോളിയം എലമെന്റിനെ 4 pi r പ്രൈം സ്ക്വയർ dr പ്രൈം എന്ന് എഴുതാൻ കഴിയും കൂടാതെ ചാർജ് ഡെൻസിറ്റി rho 0 r പ്രൈം ആണ് അത് പിന്നീട് 4 pi ഇന്റഗ്രേഷൻ rho 0 r പ്രൈം ക്യൂബ്ഡ് rho പ്രൈം 0 മുതൽ r വരെ pi rho 0 r റൈസ് ടു 4 ആണ് r ന്റെ ആരം ഗോളത്തിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് അതാണ് അതിനാൽ ഈ വലിയ ഗോളത്തിന്റെ ആകെ ചാർജ് pi rho 0 R റൈസ് ടു 4 ആണ് r0r qr0r4πr2dr0r4π00rr3drπ0r4 Qπ0r4 ഇപ്പോൾ ചെറിയ r ന്റെ ഈ ചെറിയ ഗോളത്തെത്തുടർന്ന് ചാർജ് pi r റൈസ് ടു 4 rho 0 അതിനാൽ ഉപരിതലത്തിലെ പോട്ടെൻഷ്യൽ 1 ഓവർ 4 pi എപ്സിലോൺ 0 pi r റൈസ് ടു 4 rho 0 ഓവർ r ഇത് ഒന്നുമല്ല 1 ഓവർ 4 എപ്സിലോൺ 0 റോ 0 ഓവർ 4 പൈ എപ്സിലോൺ 0 ആർ ക്യൂബ് ഇപ്പോൾ ഞാൻ ആ കട്ടിയുള്ള ഷെൽ d r കൊണ്ടുവന്നാൽ വർക്ക് ഡൺ അതിനെ d w എന്ന് വിളിക്കാം ഇത് പോട്ടെൻഷ്യൽ v r തവണയ്ക്ക് 4 pi r സ്ക്വയർ d r തുല്യമായിരിക്കും എന്നത് വോളിയം തവണ rho 0 r അതാണ് സാന്ദ്രത ഞാൻ ഇത് സമന്വയിപ്പിച്ചാൽ 0 മുതൽ R വരെ എനിക്ക് വർക്ക് ഡൺ ലഭിക്കും അതിനാൽ ഇത് 4 pi പുറത്തുവരുന്നു v r ഒന്നുമല്ല പക്ഷേ 4 pi എപ്സിലോൺ 0 ഇന്റഗ്രേഷൻ r ക്യൂബ്ഡ് ടൈംസ് r സ്ക്വയർ ടൈംസ് r d r കൂടാതെ ചാർജിൽ നിന്ന് ഒരു അധിക റോ 0 ലഭിക്കും അതിനാൽ ഇത് 4 പൈ 4 പൈ റദ്ദാക്കുന്നു റോ നോട്ട് സ്ക്വയർ ഓവർ എപ്സിലോൺ 0 ലഭിക്കുന്നു ഇത് റൈസ് ടു 6 അതിനാൽ എനിക്ക് ആർ റൈസ് ടു 7 ഓവർ 7 ഇത് റോ നോട്ട് സ്ക്വയർ ആർ റൈസ് ടു 7 ഓവർ 7 എപ്സിലോൺ 0 ഇത് വർക്ക് ഡൺ ലഭിക്കും മൊത്തം ചാർജിന്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രകടിപ്പിക്കാം r dr02R770 അതിനാൽ വർക്ക് ഡൺ rho 0 റൈസ് ടു 7 ഓവർ 7 എപ്സിലോൺ 0 rho 0 സ്ക്വയർ ഇത് തുല്യമാണ് q സ്ക്വയർ ഓവർ pi സ്ക്വയർ R റൈസ് ടു 8 മടങ്ങ് R റൈസ് ടു 7 ഓവർ 7 എപ്സിലോൺ 0 അതിനാൽ ഇത് ഒന്നുമല്ല പക്ഷേ ക്യൂ സ്ക്വയർ ഓവർ 7 പൈ സ്ക്വയർ എപ്സിലോൺ 0 r അതാണ് ഉത്തരം ഒരു തിരുത്തൽ പൈ സ്ക്വയറിന്റെ ഈ അധിക ഘടകം എനിക്ക് ഇവിടെ ലഭിക്കുന്നു എനിക്ക് അത് എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് പരിശോധിക്കാം ഇത് ഇവിടെ നിന്നാണ് വരുന്നത് ഈ പൈ ഞാൻ എടുക്കാൻ മറന്നു അതിനാൽ ഇവിടെ ഒരു പൈ ഉണ്ടാകും ഇവിടെ ഒരു പൈ ഉണ്ടാകും അതിനാൽ അവിടെ ഒരു പൈ ഉണ്ടാകും അതിനാൽ അവസാന ഉത്തരം Q സ്ക്വയർ ഓവർ 7 പൈ എപ്സിലോൺ 0 r അതാണ് ശരിയായ ഉത്തരം W02R770Q2R72R870Q27π0R അടുത്തതായി ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ rho r ന്റെ ഊർജ്ജം കണക്കാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് rho 0 e റൈസ് ടു ന് മൈനസ് ആൽഫ r അതിനാൽ ഈ ചാർജ് സാന്ദ്രത ഇതുപോലെയാണ് ഇത് 0 ന് തുല്യമായ rho 0 ആണ് തുടർന്ന് എക്സ്പോണൻഷലായി താഴേക്ക് പോകുന്നു ഇത് rho r എന്നത് rho 0 റൈസ് ടു മൈനസ് ആൽഫ r ഉപയോഗിച്ച തന്ത്രം മുമ്പത്തെ പ്രശ്നത്തിലെന്നപോലെ ആയിരിക്കും അതായത് നമ്മൾ v r ൽ കണക്കാക്കുകയും ഇതിനെ 4 pi r സ്ക്വയർ rho r d r കൊണ്ട് ഗുണിക്കുകയും പൂജ്യത്തിൽ നിന്ന് അനന്തതയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും R ആരം വരെയുള്ള പ്രദേശത്തെ ഈ ചാർജ് കാരണം v r കണക്കാക്കുന്നത് ഒന്നുമല്ല എന്നാൽ 1 ഓവർ 4 പൈ എപ്സിലോൺ 0 q r ഓവർ r q r എന്നത് ഇന്റഗ്രൽ rho 0 e റൈസ് ടു മൈനസ് ആൽഫ r പ്രൈം 4 pi r പ്രൈം സ്ക്വയർ d r പ്രൈം 0 മുതൽ r വരെ അതിനാൽ ഇത് 4 pi rho 0 ഇന്റഗ്രൽ r പ്രൈം സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ആൽഫ r പ്രൈം d r പ്രൈം 0 മുതൽ r വരെ ഈ ഇന്റഗ്രൽ കണക്കാക്കാൻ ഞാൻ ഇവിടെ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കുന്നു അതായത് 0 മുതൽ r r പ്രൈം സ്ക്വയർ e റൈസ് ടു മൈനസ് ആൽഫ ആർ പ്രൈം ഡി ആർ പ്രൈം ഞാൻ ആഗ്രഹിക്കുന്നു ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ആൽഫ ആർ പ്രൈം ഡി പ്രൈം 0 മുതൽ ആർ വരെ ആൽഫയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇത് രണ്ടാമത്തെ ഡെറിവേറ്റീവ് ആയി എഴുതാൻ കഴിയും ആൽഫയുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ടുതവണ വേർതിരിക്കുമ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എനിക്ക് ഒരു പ്രൈം സ്ക്വയർ നൽകുന്നു അതിനാൽ ഇത് d 2 ന് തുല്യമായി d ആൽഫ സ്ക്വയർ 1 മൈനസ് ഇ ആൽഫയെക്കാൾ മൈനസ് ആൽഫയിലേക്ക് ഉയർത്തുന്നു ഇത് എപ്പോൾ ഡിഫറൻഷ്യേറ്റഡ് എനിക്ക് 2 ഓവർ ആൽഫ ക്യൂബ് മൈനസ് 2 ആർ ഓവർ ആൽഫ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ആൽഫ ആർ മൈനസ് ആർ സ്ക്വയർ ഓവർ ആൽഫ ഇ റൈസ് ടു മൈനസ് ആൽഫ ആർ മൈനസ് 2 ഓവർ ആൽഫ ക്യൂബ് ഇ റൈസ് ടു മൈനസ് ആൽഫ ആർ അതിനാൽ ഈ ഗോളത്തിൽ ആരം വരെയുള്ള ചാർജ് അതാണ് Vr14π0qr qr0R0e αr4πr2dr4π00rr2e αrdr 0rr2e αrdrd2d20re αrdrd2d21 e αr23 2r2e αr r2e αr 23e αr അതിനാൽ പോട്ടെൻഷ്യൽ vr തുല്യമാണ് 4 pi rho 0 ഓവർ 4 pi എപ്സിലോൺ 0 1 ഓവർ r 2 ഓവർ ആൽഫ ക്യൂബ്ഡ് മൈനസ് 2 r ഓവർ ആൽഫ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ആൽഫ ആർ മൈനസ് ആർ സ്ക്വയർ ഓവർ ആൽഫ ഇ റൈസ് ടു മൈനസ് ആൽഫ ആർ മൈനസ് 2 ഓവർ ആൽഫ ക്യൂബ് ഇ റൈസ് ടു മൈനസ് ആൽഫ r അത് തുല്യമാണ് ഞാൻ ഈ 4 പൈ റോ 0 ഓവർ എപ്സിലോൺ 0 1 ഓവർ ആർ റദ്ദാക്കുന്നു 2 ഓവർ ആൽഫ ക്യൂബ് മൈനസ് 2 ആർ ഓവർ ആൽഫ സ്ക്വയർ ഇ മൈനസ് ആൽഫ ആർ മൈനസ് ആർ സ്ക്വയർ ഓവർ ആൽഫ ഇ മൈനസ് ആൽഫ ആർ മൈനസ് 2 ഓവർ ആൽഫ ക്യൂബ്ഡ് ഓവർ മൈനസ് ആൽഫ ആർ അതിനാൽ വർക്ക് ഡൺ rho 0 ഓവർ എപ്സിലോൺ 0 മടങ്ങ് ഇന്റഗ്രൽ 4 പൈ ആർ സ്ക്വയർ d r തവണയായിരിക്കും ചാർജ് ഡെൻസിറ്റി ഒന്നുമല്ല പക്ഷേ റോ 0 ഇ റൈസ് ടു മൈനസ് ആൽഫ ആർ 1 ഓവർ ആർ 2 ഓവർ ആൽഫ ആർ ക്യൂബ്ഡ് മൈനസ് ഈ മുഴുവൻ കാര്യം നമുക്ക് കുറച്ച് നിബന്ധനകൾ റദ്ദാക്കാം ഈ r ഇവിടെ റദ്ദാക്കുന്നത് എനിക്ക് r മാത്രം നൽകുന്നു അതിനാൽ എനിക്ക് 4 പൈ റോ 0 സ്ക്വയർ ഓവർ എപ്സിലോൺ 0 ഇന്റഗ്രൽ 0 മുതൽ അനന്തതയിലേക്ക് ഞാൻ ഈ ആർ അകത്തേക്ക് കൊണ്ടുപോകും എനിക്ക് 2 ഓവർ ആൽഫ ഇ റൈസ് ടു മൈനസ് ആർ ക്യൂബ്ഡ് ഓവർ ആൽഫ ഇ റൈസ് ടു മൈനസ് 2 ആൽഫ ആർ മൈനസ് 2 ആർ ഓവർ ആൽഫ ക്യൂബ്ഡ് ഇ റൈസ് ടു മൈനസ് 2 ആൽഫ ആർഡിആർ 0 മുതൽ അനന്തതയിലേക്ക് Vr4π04π01r23 2r2e αr r2e αr 23e αr0023 2r2e αr r2e αr 23e αr W004πr2dr0e αr1r23 2r2e αr r2e αr 23e αr4π02002re αr3 2r22e 2αr r3e 2αr 2r3e 2αrdr ഇപ്പോൾ ഫലം ഉപയോഗിക്കാൻ പോകുന്നത് പൂജ്യം മുതൽ അനന്തത വരെ r റൈസ് ടു n e റൈസ് ടു മൈനസ് ആൽഫ rdr തുല്യമാണ് n ഫാക്റ്റോറിയലിന് ഓവർ ആൽഫ റൈസ് ടു n പ്ലസ് 1 ഒപ്പം പ്രയോഗിക്കുമ്പോൾ ഈ പദം ഞാൻ ടേം പ്രകാരം എഴുതട്ടെ വർക്ക് ഡൺ 4 pi rho 0 സ്ക്വയർ ഓവർ എപ്സിലോൺ 0 തുല്യമാണ് ആദ്യ പദം എനിക്ക് 2 ഓവർ ആൽഫ ക്യൂബ് തവണ നൽകുന്നു ഇതിന്റെ r e റൈസ് ടു മൈനസ് ആൽഫ r അതിനാൽ ഇത് 1 ഓവർ ആൽഫ സ്ക്വയർ മൈനസ് 2 ഓവർ ആൽഫ സ്ക്വയർ r സ്ക്വയർ e റൈസ് ടു മൈനസ് 2 ആൽഫ r ആണ് അതിനാൽ അത് 2 ഫാക്റ്റോറിയലായി ഹരിക്കപ്പെടും 2 ആൽഫ ക്യൂബ് കൊണ്ട് അടുത്ത പദം മൈനസ് ആർ ക്യൂബ് ഓവർ ആൽഫ ആയതിനാൽ എനിക്ക് 1 ഓവർ ആൽഫ ഉണ്ട് r ക്യൂബ്ഡ് എനിക്ക് മൂന്ന് ഫാക്റ്റോറിയൽ നൽകും അത് 6 ഓവർ ഇ റൈസ് ടു മൈനസ് 2 ആൽഫ r ആണ് അതിനാൽ 2 ആൽഫ റൈസ് ടു 4 അവസാന പദം 2 ഓവർ ആൽഫ ക്യൂബ്ഡ് r വീണ്ടും എനിക്ക് 2 ഫാക്റ്റോറിയൽ ഹരിക്കപ്പെടും 2 ആൽഫ സ്ക്വയർ അതാണ് എന്റെ ഉത്തരം ഇത് 4 പൈ റോ സ്ക്വയർ ഓവർ എപ്സിലോൺ 0 2 ഓവർ ആൽഫ റൈസ് ടു 5 മൈനസ് 6 ഓവർ 16 അതിനാൽ അതായത് 3 ഓവർ 8 1 ഓവർ ആൽഫ റൈസ് ടു 5 മൈനസ് 1 ഓവർ ആൽഫ റൈസ് ടു 5 ആയി ഇവിടെ ഒരു തെറ്റ് ഉണ്ട് എനിക്ക് ഇത് പാടില്ലെന്ന് ഞാൻ കരുതുന്നു 2 ഇവിടെ കാരണം ഇത് r ന്റെ സംയോജനമാണ് അതിനാൽ ഇത് ഒരു ഫാക്റ്റോറിയൽ ആയിരിക്കണം അതിനാൽ ഇത് ഒന്നുമാത്രമാണ് അതിനാൽ ഇത് ഇവിടെ 2 ന്റെ ഘടകമായിരിക്കും ഇപ്പോൾ ഈ പദം ഇവിടെയുള്ള പദവും ഇവിടെയുള്ള പദവും എനിക്ക് 1 ഓവർ ആൽഫ റൈസ് ടു 5 നൽകുന്നു അതിനാൽ ഇത് 4 പൈ റോ 0 സ്ക്വയർ ഓവർ എപ്സിലോൺ 0 1 ഓവർ ആൽഫ റൈസ് ടു 5 മൈനസ് 38 ആൽഫ റൈസ് ടു 5 ആയി മാറുന്നു ഇത് എനിക്ക് നൽകുന്നു 4 pi rho 0 സ്ക്വയർ തവണ 58 ആൽഫ റൈസ് ടു 5 ഓവർ എപ്സിലോൺ 0 അതാണ് എന്റെ ഉത്തരം rho 0 മൊത്തം ചാർജിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് n1 W4π0202312 2222α3 162α4 2312α34π020585 ഇപ്പോൾ മൊത്തം ചാർജ് Q തുല്യമാണ് ഇന്റഗ്രേഷൻ rho 0 e റൈസ് ടു മൈനസ് ആൽഫ r തവണ 4 pi r സ്ക്വയർ dr 0 മുതൽ അനന്തതയിലേക്ക് അതായത് 4 pi rho 0 ഇന്റഗ്രേഷൻ r സ്ക്വയർ e റൈസ് ടു മൈനസ് ആൽഫ r d r 0 മുതൽ അനന്തതയിലേക്ക് അതായത് 4 pi rho 0 തവണ 2 ഫാക്റ്റോറിയൽ ഹരിക്കുന്നു ആൽഫ ക്യൂബ് കൊണ്ട് അതിനാൽ ഇത് 8 പൈ rho o ഓവർ ആൽഫ ക്യൂബിന് ആണ് ഇത് മൊത്തം ചാർജാണ് അതിനാൽ നമുക്ക് റോ 0 ന് പകരം എഴുതാം തുല്യമായ ആൽഫ ക്യൂബ് ഓവർ 8 pi വിതരണത്തിന്റെ ഊർജ്ജം w pi ഓവർ എപ്സിലോൺ 0 തുല്യമാവുകയും ചെയ്യാം റോ സ്ക്വയർ ആൽഫ റൈസ് ടു 6 മടങ്ങ് Q സ്ക്വയർ ഓവർ 64 പൈ സ്ക്വയർ തവണ ആൽഫ റൈസ് ടു 5 അതിനാൽ ഇത് 5 q സ്ക്വയർ ആൽഫ കൊണ്ട് ഹരിച്ചാണ് ഉത്തരം നൽകുന്നത് നമുക്ക് 4 നോക്കാം ഇത് 16 പൈ റദ്ദാക്കുന്നു അതിനാൽ 128 പൈ എപ്സിലോൺ 0 അതാണ് ഉത്തരം ഈ ചാർജ് വിതരണത്തിന്റെ ഊർജ്ജം അതാണ്